ഒരു ചാലകത്തിലെ വൈദ്യുത മണ്ഡലവും പൊട്ടൻഷ്യലും നമ്മൾ ഇതുവരെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അഥവാ സ്ഥിതവൈദ്യുത മണ്ഡലത്തെക്കുറിച്ചും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അഥവാ സ്ഥിതവൈദ്യുത പൊട്ടൻഷ്യലിനെ കുറിച്ചുമാണ് ചർച്ച ചെയ്തിരുന്നത് അടുത്തതായി ഇത് വിവിധ ഉദാഹരണങ്ങളിൽ പ്രയോഗിച്ചു നോക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടക്ടർ അഥവാ ചാലകത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇവയെക്കുറിച്ചും ചാർജിനെക്കുറിച്ചും ആണ് ചർച്ച ചെയ്യുന്നത് ചാലകങ്ങൾ വളരെ പ്രത്യേകമായ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട വിഭാഗത്തിൽ പെടുന്ന വസ്തുക്കളാണ് അതുകൊണ്ടുതന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചു വിശദമാക്കാം പിന്നീട് നമുക്ക് ഡൈഇലക്ട്രിക്സ് അല്ലെങ്കിൽ പോളറൈസബിൾ അഥവാ ധ്രുവീകരണ യോഗ്യമായ വസ്തുക്കളെകുറിച്ചും ചർച്ച ചെയ്യാം ആദ്യം നമുക്ക് ചാലകങ്ങളിൽ നിന്നും തുടങ്ങാം ചാലകങ്ങൾ അഥവാ കണ്ടക്ടറുകളിൽ ഇലക്ട്രിക്ക് ഫീൽഡിന്റെ സ്വാധീനത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ധാരാളം സ്വതന്ത്ര ചാർജുകളുണ്ട് അതുകൊണ്ടുതന്നെ ഇവ തനതായ സ്വഭാവ വിശേഷം പ്രകടിപ്പിക്കുന്നു ഞാൻ ചാലകങ്ങളുടെ ചില പ്രധാനപ്പെട്ട സവിശേഷതകൾ ഓരോന്നായി വിശദീകരിക്കാം അപ്പോൾ നമുക്ക് ചാലകങ്ങളെ സംബന്ധിച്ച പ്രധാന വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചാലകങ്ങളുടെ ഉള്ളിലുള്ള സ്ഥിത വൈദ്യുത മണ്ഡലം പൂജ്യം ആയിരിക്കും ഇതിന്റെ കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ നമുക്ക് ഒരു ചാലകം പരിഗണിക്കാം ഇതിനുള്ളിൽ പൂജ്യം അല്ലാത്ത ഒരു ഇലക്ട്രിക്ക് ഫീൽഡ് ഉണ്ടെന്നു കരുതുക ഈ ഫീൽഡ് എന്താണ് ചെയ്യുന്നത് ഈ ഫീൽഡ് ചാലകത്തിലെ സ്വതന്ത്ര ചാർജുകളെ ചലിപ്പിക്കുന്നു അങ്ങനെ ഈ സ്വതന്ത്ര ചാർജുകൾ ഉള്ളിലുള്ള വൈദ്യുത മണ്ഡലം പൂജ്യം ആകത്തക്കവിധത്തിൽ സ്വയം വ്യാപിക്കുകയും ഉള്ളിലുള്ള ഫീൽഡ് പൂജ്യം ആക്കുകയും ചെയ്യുന്നു അപ്പോൾ ചാലകത്തിനുള്ളിലുള്ള സ്വതന്ത്ര ചാർജുകൾ ഇലക്ട്രിക്ക് ഫീൽഡ് സീറോ ആകുന്ന രീതിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു ഈ ചാർജുകൾ സ്വതന്ത്രമായി ചലിക്കാൻ പറ്റുന്നവയാണ് അതുകൊണ്ടുതന്നെ ചാലകങ്ങളുടെ ഉള്ളിലുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് സീറോ ആയിരിക്കും തൽഫലമായി ചാലകങ്ങളുടെ രണ്ടാമത്തെ സവിശേഷത ലഭിക്കുന്നു ചാലകങ്ങളുടെ ഉൾഭാഗത്തുള്ള അധികചാർജ് ഉപരിതലത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു ഇതിനെകുറിച്ച് നമ്മൾ നേരത്തെ തന്നെ പലയിടത്തും പരാമർശിച്ചതാണ് ഇവിടെ നമ്മൾ അതിനെകുറിച്ച് കൂടുതലായി പറയാം ഇത് കൂടുതലായി മനസിലാക്കാനായി നമുക്ക് ഉൾഭാഗത്ത് ഫീൽഡ് E 0 ആയിട്ടുള്ള കട്ടിയുള്ള ഒരു കണ്ടക്ടർ എടുക്കാം ഇതിനുള്ളിൽ ഏതെങ്കിലും ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ഒരു ചെറിയ വോളിയം എടുത്താൽ ഗോസ്സ് നിയമം Gausss law അനുസരിച്ച് കാരണം ഇവിടെ E 0 ആണ് അതുകൊണ്ടുതന്നെ q enclosed സീറോ ആകുന്നു അതായത് ഒരു കണ്ടക്ടറിനുള്ളിൽ ഏതു വലിപ്പത്തിലോ ആകൃതിയിലോ ഉള്ള വോളിയ ത്തിൽ അടങ്ങിയിരിക്കുന്ന ചാർജ് സീറോ ആയിരിക്കും അതായത് ഒരു കണ്ടക്ടറിന്റെ ഉള്ളിൽ അധിക ചാർജുകൾ ഉണ്ടാവില്ല നേരത്തെ കൂളോം ബലം Coulombs force 1 r 2 ന് ആനുപാതികമായിരിക്കും എന്ന് പരിശോധിക്കുന്ന രീതി ചർച്ച ചെയ്ത സന്ദർഭത്തിൽ ഇതിനെക്കുറിച്ചും നമ്മൾ പരാമർശിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒന്നുകൂടെ വിശദമാക്കാം നമുക്ക് ഒരു ഗോളാകൃതിയിലുള്ള ചാലകം എടുക്കാം ഇതിന് ഗോളീയ സമമിതി അഥവാ സ്ഫെറിക്കൽ സിമെട്രി ആണ് ഉള്ളത് അതായത് ഇതിന് ദിശയ്ക്കനുസരിച്ചുള്ള വ്യതിയാനം ഉണ്ടാവില്ല എന്നർത്ഥം ഈ ചാലകത്തിൽ നമ്മൾ അധികചാർജ് വെക്കുകയാണെങ്കിൽ അത് ഗോളീയ സമമിതിയിൽ ചിത്രത്തിൽ കാണുന്നതുപോലെ വിതരണം ചെയ്യപ്പെടുന്നു ഒരേ തരത്തിലുള്ള ചാർജുകൾ തമ്മിൽ വികർഷിക്കുന്നതു കൊണ്ട് ഇതിനോട് സമാനമായ ചാർജുകൾ ഗോളോപരിതലത്തിലേക്ക് നീങ്ങുന്നു ഉദാഹരണമായി ഇവിടെ പോസിറ്റീവ് ചാർജ് ഉപരിതലത്തിലെത്തുന്നു എന്ന് കരുതുക ഇവിടെ ഫീൽഡ് 1 r 2 ന് ആനുപാതികമായി മാറുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ ഗോസ്സ് നിയമത്തിന് ഇവിടെ സാധുതയില്ലെന്നു കരുതുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഗോസ്സ് നിയമവും ഫീൽഡ് 1 r 2 ന് ആനുപാതികമെന്നു പറയുന്നതും സമാനമാണെന്ന കാര്യം ഇവിടെ നിങ്ങൾ ഓർക്കുമല്ലോ അടുത്തതായി നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇവിടെ ഗോളത്തിന്റെ ഒരു വശത്തായി ഉപരിതലത്തിൽ വളരെ ചെറിയ ഒരു ഏരിയ എടുക്കാം ഈ ഏരിയ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അധിക ചാർജ് വിതരണം ചെയ്യപ്പെട്ട പ്രതലത്തിലേക്ക് d𝝮 എന്ന സോളിഡ് ആംഗിൾ ഉണ്ടാക്കുന്നു ഇതുപോലെത്തന്നെ ഇതേ സോളിഡ് ആംഗിൾ d𝝮 ഉണ്ടാക്കികൊണ്ട് നേരെ മറുവശത്ത് ഉപരിതലത്തിൽ അല്പം വലിയ ഒരു ഏരിയ സങ്കല്പിക്കാം അധിക ചാർജുള്ള പ്രതലത്തിൽ നിന്നും ചെറിയ ഏരിയയിലേക്കുള്ള ദൂരം r1 ഉം വലിയ ഏരിയയിലേക്കുള്ള ദൂരം r2 ഉം ആണെന്നിരിക്കട്ടെ d 𝝮 വളരെ ചെറിയതാണ് സ്ഫെറിക്കൽ കോർഡിനേറ്റ് അനുസരിച്ച് നിങ്ങൾ പഠിച്ചതെന്താണ് ഇവിടെ ഏരിയ സ്ഫെറിക്കൽ കോർഡിനേറ്റിൽ കാണാനായി നമുക്ക് ഈ ചിത്രം ഒന്നുകൂടെ മാറ്റി വരക്കാം ഇവിടെ ചെറിയ ഏരിയയിലേക്കുള്ള ദൂരം r1 ഉം വലിയ ഏരിയയിലേക്കുള്ള ദൂരം r2 ഉം ആണല്ലോ അപ്പോൾ ചെറിയ ഏരിയ d 𝝮 അതുപോലെ തന്നെ വലിയ ഏരിയ d 𝝮 r2 2 ഇനി ഈ രണ്ടു പ്രതലത്തിലുമുള്ള ചാർജ് കാരണം ഈ ബിന്ദുവിലെ അതായത് രണ്ടു വരകളും തമ്മിൽ മുട്ടുന്ന ബിന്ദുവിലെ ഫീൽഡ് കണ്ടുപിടിക്കാം ഗോളത്തിലെ ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ വലിയ പ്രതലത്തിലെ ചാർജ് 𝜎d 𝝮 r2 2 ഉം ചെറിയ പ്രതലത്തിലെ ചാർജ് d 𝝮 ഉം ആയിരിക്കും ഇവിടെ ഫീൽഡ് എന്ന രീതിയിൽ മാറുന്നുണ്ടെന്ന് കരുതാം 𝛿 എന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണെന്നിരിക്കട്ടെ അപ്പോൾ ഈ ബിന്ദുവിലുള്ള ഫീൽഡ് കാരണം രണ്ടു പ്രതലത്തിലെയും ചാർജ് കാരണമുള്ള ഫീൽഡ് വിപരീത ദിശയിലായിരിക്കും ഒന്നാമത്തെ പദം 𝜎d𝝮 r2 2 കാരണമുള്ള ഫീൽഡ് ആണ് ഇത് ചെറിയ ഏരിയയുടെ ദിശയിലേക്കായിരിക്കും അതുപോലെ രണ്ടാമത്തെ പദം ചെറിയ ഏരിയയിലുള്ള ചാർജ് 𝜎d𝝮 r12 കാരണമുള്ള ഫീൽഡ് ആണ് ഇത് വലിയ ഏരിയയുടെ ദിശയിലേക്കായിരിക്കും ഇവിടെ k എന്നത് കോൺസ്റ്റന്റ് അതായത് 1 4 0 നമ്മൾ അതിനെ കുറിച്ച് അധികം ആലോചിക്കുന്നില്ല കാരണം നമ്മൾ ഇവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഫീൽഡും r മായുള്ള ബന്ധത്തെകുറിച്ചാണ് ഇക്വേഷൻ മാറ്റി എഴുതിയാൽ ഇതുവരെ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ഞാനിവിടെ ഒരു ചാർജ് ചെയ്ത ഗോളം ഉദാഹരണമായി എടുത്തിട്ടുണ്ട് ഗോളത്തിന്റെ ഇവിടെ കാണിച്ചിരിക്കുന്ന രണ്ടു പ്രതലത്തിലുമുള്ള ചാർജ് കാരണം ഈ ഗോളത്തിനുള്ളിൽ ഈ ബിന്ദുവിലുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് ആണ് കാണാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് r2 r1 ആണെങ്കിൽ പരിണത വൈദ്യുത മണ്ഡലം അഥവാ റിസൽറ്റന്റ് ഫീൽഡ് ചിത്രത്തിൽ കാണിച്ചതുപോലെ വലിയ ഏരിയയിൽ നിന്നും ചെറിയ ഏരിയയുടെ ദിശയിലേക്കായിരിക്കും ഇവിടെ ഞാൻ റെഡ് കളറിൽ ആകെ ഫീൽഡിന്റെ ദിശ കാണിച്ചിട്ടുണ്ട് ഈ ദിശ പോസിറ്റീവ് ആയി സങ്കല്പിക്കാം ഈ ഫീൽഡ് ഇവിടെ വരുത്തുന്ന മാറ്റം എന്താണെന്ന് നോക്കൂ ഇത് കൂടുതൽ ചാർജുകൾ ഉപരിതലത്തിലേക്കെത്തിക്കുന്നു തൽഫലമായി ഇതിന്റെ വിപരീത ചാർജുകൾ ഉൾഭാഗത്തുതന്നെ നിലനിൽക്കുന്നു അതായത് എന്ന് എടുക്കുകയാണെങ്കിൽ അധിക ചാർജുകൾ ഉപരിതലത്തിൽ കേന്ദ്രീകരിക്കുന്നതോടൊപ്പം കൂടുതൽ അതേതരം ചാർജുകളെ ഉപരിതലത്തിലേക്കെത്തിക്കുന്നു അതുകൊണ്ടുതന്നെ ഗോളത്തിനുള്ളിൽ വിപരീത ചാർജുകൾ ഉണ്ടാകുന്നു അതായത് ഗോളത്തിന്റെ ഉൾഭാഗത്ത് ചാർജ് സീറോ ആകുന്നില്ല എന്നർത്ഥം ഇതിനു പകരം നമുക്ക് മറ്റൊരു രീതിയിൽ സങ്കൽപ്പിച്ചു നോക്കാം നമുക്ക് ഫീൽഡ് എന്നെടുക്കാം അപ്പോൾ പരിണത വൈദ്യുത മണ്ഡലം എന്നാകുന്നു ഇവിടെ r2 r1 ആണെങ്കിൽ പരിണത വൈദ്യുത മണ്ഡലം നേരെ വിപരീത ദിശയിൽ അതായത് വലിയ ഏരിയയുടെ ദിശയിലാകുന്നു ഇതിന്റെ ദിശ ഞാനിവിടെ ബ്ലാക്ക് നിറത്തിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഉപരിതലത്തിലുള്ള അധിക ചാർജുകൾ അതെ തരം ചാർജുകളെ എതിർ ദിശയിലേക്കു അതായത് ഗോളത്തിന്റെ കേന്ദ്രത്തിലേക്ക് തള്ളുന്നു അപ്പോൾ ഗോളത്തിന്റെ കേന്ദ്ര ഭാഗത്ത് ഉപരിതലത്തിലുള്ള അധിക ചാർജിന്റെ അതെ തരം ചാർജുകളും ഇതിന്റെ വിപരീത ചാർജുകൾ ഗോളത്തിന്റെ ബാക്കി ഭാഗത്തുമായി വിന്യസിക്കപ്പെടുന്നു നമുക്ക് നമ്മുടെ ഈ വാദം സാമാന്യവത്കരിക്കാം ഈ ഗോളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾക്ക് ഇപ്രകാരമുള്ള വിപരീത ദിശകളിലുള്ള ഏരിയകൾ കാണാൻ സാധിക്കും ഇത്തരം ഏരിയകൾ എടുത്താൽ അവയുടെ ഫീൽഡ് 1 r 2 ബന്ധത്തിൽ നിന്നും മാറിയാൽ ഗോളത്തിന്റെ ഉൾഭാഗത്തുള്ള ചാർജ് സീറോ ആകുന്നില്ല എന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു എന്നാൽ ഫീൽഡ് 1 r 2 നു ആനുപാതികമാകുമ്പോൾ വിപരീത ദിശയിലുള്ള ഏരിയയിലെ ചാർജുകൾ കാരണമുള്ള ഫീൽഡ് തമ്മിൽ ക്യാൻസൽ ചെയ്യപ്പെട്ട് ഉൾഭാഗത്ത് പരിണത ചാർജ് സീറോ ആകുന്നു അതായത് 𝛿 0 ആകുമ്പോൾ ഇക്വേഷനിലെ രണ്ടു പദങ്ങളും തമ്മിൽ ക്യാൻസൽ ചെയ്യപ്പെട്ട് E 0 ആകുന്നു അതായത് ഗോളത്തിനുള്ളിൽ ചാർജ് സീറോ ആകുന്നു അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗോസ്സ് നിയം അനുസരിച്ച് അല്ലെങ്കിൽ 1 r 2 ബന്ധം അനുസരിച്ച് ഒരു ചാലകത്തിനുള്ളിലെ അധിക ചാർജുകൾ എപ്പോഴും ചാലക ഉപരിതലത്തിലേക്ക് നീങ്ങുകയും ചാലകത്തിന്റെ അന്തർഭാഗത്ത് ആകെ സഫല ചാർജ് പൂർണമായും സീറോ ആയിത്തീരുകയും ചെയ്യുന്നു ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ വളരെ ഉപരിപ്ലവമായ അർഥം അടുത്തത് പോയിന്റ് നമ്പർ 3 എന്തെന്ന് നോക്കാം ചാലകത്തിൽ മുഴുവനും സ്ഥിത വൈദ്യുത പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് അഥവാ സ്ഥിരമായിരിക്കും അതായത് ഈ ചാലകത്തിന്റെ ഉള്ളിലോ ഉപരിതലത്തിലോ ഉള്ള ഏതെങ്കിലും രണ്ടു ബിന്ദുക്കളെടുത്താൽ അവ ഒരേ പൊട്ടൻഷ്യലിൽ ആയിരിക്കും ഉദാഹരണമായി ഇവിടെ ചാലകത്തിന്റെ പല ഭാഗത്തായി പല ബിന്ദുക്കൾ സങ്കല്പിച്ചാൽ അവയെല്ലാം ഒരേ പൊട്ടൻഷ്യലിൽ ആയിരിക്കും ഇതിന്റെ കാരണം വളരെ ലളിതമാണ് ചാലകത്തിന്റെ ഉൾഭാഗത്ത് ഇലക്ട്രിക്ക് ഫീൽഡ് സീറോ ആയതുകൊണ്ട് ഇതിനുള്ളിൽ ഒരു ടെസ്റ്റ് ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് നീക്കാനായി ചെയ്യേണ്ടിവരുന്ന പ്രവൃത്തി അഥവാ വർക്ക് സീറോ ആയിരിക്കും അതായത് പ്രവൃത്തി ഒന്നും തന്നെ ചെയ്യേണ്ടി വരുന്നില്ല വർക്ക് സീറോ എന്നതിനർത്ഥം പൊട്ടൻഷ്യൽ ഡിഫറെൻസ് ഇല്ല എന്നാണ് അതായത് പൊട്ടൻഷ്യൽ ഒരേപോലെയായിരിക്കും എന്നർത്ഥം ഇത് മറ്റൊരു രീതിയിലും നിരീക്ഷിക്കാം ചാലകത്തിന്റെ ഉപരിതലത്തിലോ ഉൾഭാഗത്തോ ഉള്ള രണ്ട് ബിന്ദുക്കൾ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറെൻസ് ഉണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ഇലക്ട്രിക്ക് ഫീൽഡ് ഉണ്ട് എന്നാണ് കാരണം ഇലക്ട്രിക്ക് ഫീൽഡ് ഇലക്ട്രിക്ക് ഫീൽഡ് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ചാർജിനെ തള്ളി മാറ്റുന്നു ഫീൽഡ് സീറോ ആകുന്നതുവരെ ഇത് തുടരുന്നു ഫീൽഡ് സീറോ ആകുന്ന നിമിഷത്തിൽ തന്നെ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആകുന്നു അതായത് പൊട്ടൻഷ്യൽ ഡിഫറെൻസ് സീറോ ആകുന്നു അപ്പോൾ ഒരു ചാലകത്തിന്റെ എല്ലാ ഭാഗങ്ങളും സമ പൊട്ടൻഷ്യൽ പ്രതലങ്ങൾ ആയിരിക്കും കാരണം എല്ലായിടത്തും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും ചാർജ് ചെയ്യപ്പെട്ട ഒരു ചാലകത്തിന്റെ ഉപരിതലത്തിൽ സ്ഥിത വൈദ്യുത മണ്ഡലം E ഉപരിതലത്തിലെ ഓരോ ബിന്ദുവിനും ലംബ മായിരിക്കും ഇതും നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതിനായി നമ്മൾ ആദ്യം ഇതിന്റെ ഗണിത ശാസ്ത്രപരമായ വിശദീകരണം പരിശോധിക്കാം ഈ ചാലകം നോക്കൂ നമ്മൾ നേരത്തെ പറഞ്ഞുകഴിഞ്ഞു ഇതിന്റെ ഉപരിതലം സമ പൊട്ടൻഷ്യൽ പ്രതലമാണെന്ന് മാത്രമല്ല ചാലകത്തിന്റെ മുഴുവൻ പ്രതലത്തിലും പൊട്ടൻഷ്യൽ ഒന്ന് തന്നെയായിരിക്കും അപ്പോൾ V എന്നത് ഈ സമ പൊട്ടൻഷ്യൽ പ്രതലത്തിന് ലംബമായിരിക്കും അതുകൊണ്ടുതന്നെ ഫീൽഡും പ്രതലത്തിനു ലംബമായിരിക്കും യഥാർത്ഥത്തിൽ ഫീൽഡ് പ്രതലത്തിനു ലംബമല്ല അതിനു മറ്റൊരു ദിശയിൽ കംപോണന്റ് ഉണ്ടെന്നിരിക്കട്ടെ ഈ കംപോണന്റ് ഇവിടെ റെഡ് കളറിൽ ചാലകത്തിന്റെ ഉപരിതലത്തിൽ കാണിച്ചിരിക്കുന്നു ഇങ്ങനെ പ്രതലത്തിനു സമാന്തരമായി കംപോണന്റ് ഉണ്ടെങ്കിൽ ഈ കംപോണന്റ് ഉപരിതലത്തിലെ ചാർജുകളെ ചലിപ്പിക്കുന്നു അങ്ങനെ പ്രതലത്തിനു സമാന്തരമായി വരുന്ന ഫീൽഡ് സീറോ ആകുന്നതു വരെ ഇത് തുടരുന്നു അതായത് ഫീൽഡ് E ഉപരിതലത്തിന് ലംബമാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടിവരും ഇത്തരം ഒരു ഫീൽഡ് കാരണം ചാലകത്തിലുണ്ടാകുന്ന സർഫേസ് ചാർജ് ഡെൻസിറ്റി അഥവാ ഉപരിതല ചാർജ് ഡെൻസിറ്റി എത്രയാണെന്ന് കൂടി കാണാൻ സാധിക്കും ഇതിനായി എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഈ ചാലകത്തിൽ ഏതെങ്കിലും ആകൃതിയിലുള്ള ഉദാഹരണമായി ഇവിടെ നമുക്ക് സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു ചെറിയ ബോക്സ് രൂപം സങ്കല്പിക്കാം ഫീൽഡ് ഉപരിതലത്തിന് ലംബമായതുകൊണ്ട് ഈ സിലിണ്ടറിന്റെ ഉള്ളിലേക്കോ പുറത്തേക്കോ ലംബമായി വൈദ്യുത മണ്ഡല രേഖകൾ ഉണ്ടെന്നും സങ്കല്പിക്കാം നമുക്കിവിടെ ഗോസ്സ് നിയമം പ്രയോഗിക്കാം ഇവിടെ E ds സിലിണ്ടറിന്റെ രണ്ടു ഛേദ തലങ്ങളിലൂടെയുള്ള അഥവാ ബേസ് പ്രതലങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും കാരണം വക്രതലത്തിലെ ഓരോ ബിന്ദുവിലേയും ലാംബ രേഖ E യ്ക്കു ലംബമായി വരുന്നു അതിനാൽ വക്രതലത്തിൽ E ds 0 ആയിരിക്കും മാത്രമല്ല ചാലകത്തിന്റെ ഉൾഭാഗത്ത് E 0 ആണ് അതുകൊണ്ടുതന്നെ ഉൾഭാഗത്ത് വരുന്ന ഛേദ തലത്തിൽ E ds 0 ആയിരിക്കും അതായത് ഒരു ഛേദ തലം മാത്രം എടുത്താൽ മതിയെന്നർത്ഥം അപ്പോൾ ഗോസ്സ് നിയമം അനുസരിച്ച് ഇവിടെ n എന്നത് ഉപരിതലത്തിൽ നിന്നും പുറത്തേക്കുള്ള ദിശയിലുള്ള യൂണിറ്റ് വെക്റ്റർ എന്നത് സർഫേസ് ചാർജ് ഡെൻസിറ്റി Δa എന്നത് ഛേദ തലത്തിന്റെ ഏരിയ അപ്പോൾ ഇതാണ് സർഫേസ് ചാർജ് ഡെൻസിറ്റിയും ചാലകത്തിന്റെ ഉപരിതലത്തിലുള്ള ഇലക്ട്രിക്ക് ഫീൽഡും തമ്മിലുള്ള ബന്ധം ഫീൽഡിന്റെ ദിശ ചാലകത്തിന്റെ ഉൾഭാഗത്തേക്കാണെങ്കിൽ E n നെഗറ്റീവ് ആയിരിക്കും അതായത് ചാർജ് ഡെൻസിറ്റി നെഗറ്റീവ് ആയിരിക്കും അതുപോലെ ഫീൽഡ് പുറത്തേക്കുള്ള ദിശയിലേക്കാണെങ്കിൽ E n പോസിറ്റീവ് അതായത് ചാർജ് ഡെൻസിറ്റി പോസിറ്റീവ് ആയിരിക്കും ഇനി മറ്റൊരു സവിശേഷത നോക്കാം അകം പൊള്ളയായ ഒരു അടഞ്ഞ ചാലകത്തിന്റെ പൊള്ളയായ ഭാഗത്ത് ചാർജ് ഒന്നും തന്നെ ഇല്ല എങ്കിൽ ചാലകത്തിനുള്ളിലെ പൊള്ളയായ ഭാഗത്തെ വൈദ്യുത മണ്ഡലം പൂജ്യം ആയിരിക്കും ഇതും മനസിലാക്കുക വളരെ എളുപ്പമാണ് ഇതിനായി നമ്മൾ ഇത് ഒരു കട്ടിയായ ചാലകമായിരുന്നെന്നു സങ്കൽപ്പിക്കുക അങ്ങനെയെങ്കിൽ ഞാൻ എത്ര ചാർജ് ഇതിലേക്ക് സന്നിവേശിപ്പിച്ചാലും അല്ലെങ്കിൽ എത്ര ശക്തിയേറിയ വൈദ്യുത മണ്ഡലം പ്രയോഗിച്ചാലും അതുമൂലമുണ്ടാകുന്ന ചാർജ് അത് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഏതുമാവട്ടെ ഇവയെല്ലാം ചാലകത്തിന്റെ ഉപരിതലത്തിൽ മാത്രമായിരിക്കും സ്ഥിതിചെയ്യുക അതിനാൽ ഉൾഭാഗത്ത് ചാർജ് ഒന്നും തന്നെ ഉണ്ടാവില്ല ഇനി ഞാൻ ഉൾവശത്തുനിന്നും ഒരു ഭാഗം നീക്കി ഒരു ക്യാവിറ്റി സൃഷ്ടിക്കുകയാണ് ഈ ചിത്രത്തിൽ ഉൾവശത്തുള്ള ഭാഗം മായ്ച്ചു കളയുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു ക്യാവിറ്റി സൃഷ്ടിക്കപ്പെട്ടു ഞാനിവിടെ വൈദ്യുതപരമായി മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല പുതിയതായി ചാർജ് കൊണ്ടുവരികയോ നീക്കം ചെയ്യുകയോ ഉണ്ടായിട്ടില്ല അപ്പോൾ പഴയ സ്ഥിതി വിശേഷം തന്നെയാണ് ഇവിടെയുള്ളത് അതായത് ക്യാവിറ്റിയിൽ E 0 തന്നെ ആയിരിക്കും ഗണിത ശാസ്ത്രപരമായി ഇതിനെ വീക്ഷിക്കുകയാണെങ്കിൽ മുൻപ് പല ക്ലാസ്സുകളിലും പറഞ്ഞത് പോലെ 2 എന്നത് ലാപ്ലേസ് ഓപ്പറേറ്റർ അഥവാ ലാപ്ലേഷ്യൻ ആണ് ക്യാവിറ്റിയുടെ മുഴുവൻ വോളിയത്തിലുമായി ഇന്റഗ്രേറ്റ് ചെയ്താൽ അഥവാ വോളിയം ഇന്റഗ്രൽ എടുത്താൽ ഈ ഇക്വേഷനിൽ ഇടതുവശത്തുള്ള വോളിയം ഇന്റഗ്രൽ ഡൈവേർജെൻസ് തിയറം ഉപയോഗിച്ച് മാറ്റി എഴുതാം അതുപോലെ വലതുവശത്തുള്ള ഒന്നാമത്തെ പദം സീറോ ആകുന്നു കാരണം ക്യാവിറ്റിയുടെ ഉള്ളിൽ ചാർജ് സീറോ ആണ് അപ്പോൾ ചാലകത്തിന്റെ ഉപരിതലത്തിൽ V കോൺസ്റ്റന്റ് ആണല്ലോ അപ്പോൾ ഇത് ഇന്റഗ്രലിന്റെ പുറത്തേക്കെടുക്കാം അപ്പോൾ V എന്നത് E ആണ് അപ്പോൾ എന്നാൽ നിങ്ങൾക്കറിയാം ചാലകത്തിന്റെ ഉള്ളിൽ ചാർജ് ഇല്ല എന്നുള്ള കാര്യം അതുകൊണ്ട് E ds 0 ആകുന്നു അതായത് അവസാനം ലഭിക്കുന്ന റിസൾട്ട് എന്നാണ് ഇതൊരു പോസിറ്റീവ് ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതായത് ഉള്ളിലുള്ള ഫീൽഡ് സീറോ ആണെന്നർത്ഥം അപ്പോൾ ഒരു ചാലകം എത്ര നേർത്ത ഷെല്ലിന്റെ രൂപത്തിലായാലും ഉള്ളിലുള്ള ഫീൽഡ് സീറോ ആയിരിക്കും ചാർജിന്റെയും വൈദ്യുത മണ്ഡലത്തിന്റെയും ഏതു തരത്തിലുള്ള വിന്യാസങ്ങൾ പുറത്തു സംഭവിച്ചാലും ചാലകത്തിനുള്ളിലെ ഏതൊരു പൊള്ളയായ ഭാഗവും പുറത്തുണ്ടാകുന്ന വൈദ്യുത സ്വാധീനത്തിൽ നിന്നും കവചിതമാക്കപ്പെടുന്നു കാരണം പൊള്ളയായ ഭാഗത്ത് അഥവാ ക്യാവിറ്റിയിൽ വൈദ്യുത മണ്ഡലം സീറോ ആയിരിക്കും സൂക്ഷ്മ സംവേദനശക്തിയുള്ള ഉപകരണങ്ങളെ പുറത്തുനിന്നുള്ള വിദ്യുത്ജന്യമായ പ്രഭാവത്തിൽ നിന്നും സംരക്ഷിക്കാൻ ഇത്തരം സ്ഥിത വൈദ്യുത കവചങ്ങൾ ഉപയോഗിക്കുന്നു ഇതേകാരണം കൊണ്ടുതന്നെയാണ് സാധാരണയായി പറയാറുള്ളത് ഇടിയും മിന്നലുമുള്ളപ്പോൾ മെറ്റൽ കൊണ്ട് നിർമ്മിതമായ കാറിനുള്ളിൽ ഇരുന്നാൽ പുറത്തുനിന്നുള്ള വൈദ്യുത പ്രഭാവത്തിൽ നിന്നും രക്ഷ നേടാമെന്ന് ഇത്തരം വൈദ്യുത കവചങ്ങളെ 'ഫാരഡേസ് കേജ്' faradays cage എന്ന് വിളിക്കാറുണ്ട് അവസാനമായി മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടി പറയാം ഗോസ്സ് നിയമം അനുസരിച്ച് ഒരു ചാലകത്തിനുള്ളിലുള്ള ക്യാവിറ്റിയുടെ ഉൾവശത്ത് ആകെ ചാർജ് സീറോ ആയിരിക്കും കാരണം ഉള്ളിലുള്ള ഫീൽഡ് സീറോ ആണ് അതായത് ഗോസ്സ് പ്രതലം എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ചാർജ് സീറോ എന്ന് കിട്ടുന്നു അപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഇതിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് ഇവ ചേർന്നുള്ള ചാർജ് വിന്യാസം ഉണ്ടോ എന്നാണ് ഇല്ല എന്ന് തന്നെയാണ് ഇതിനുത്തരം കാരണം അത്തരം ചാർജ് വിന്യാസമുണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജിലേക്ക് ഒരു ഇലക്ട്രിക്ക് ഫീൽഡ് കൂടി ഉണ്ടാകും അതായത് E സീറോ അല്ലാതാകുമെന്നർത്ഥം പക്ഷെ നമ്മൾ നേരത്തെ കണ്ടുകഴിഞ്ഞു ക്യാവിറ്റിയുടെ ഉള്ളിൽ E സീറോ ആയിരിക്കുമെന്ന് അതിനർത്ഥം ഇതിനുള്ളിൽ ചാർജ് വിന്യാസമില്ല എന്ന് തന്നെയാണ് അപ്പോൾ ഇതാണ് ചാലകത്തിന്റെ നേരത്തെ പറഞ്ഞ സവിശേഷത ഇത് നമുക്ക് ചുരുക്കി ഇങ്ങനെ എഴുതാം 6 ഒരു ചാലകത്തിനുള്ളിലുള്ള പൊള്ളയായ ഭാഗത്ത് അഥവാ ക്യാവിറ്റിയിൽ 𝜎 അതായത് സർഫേസ് ചാർജ് ഡെൻസിറ്റി എപ്പോഴും സീറോ ആയിരിക്കും അപ്പോൾ നമ്മളിവിടെ ചാലകങ്ങളുടെ ചില പ്രധാന സവിശേഷതകൾ കണ്ടു കഴിഞ്ഞു ഇത്തരം സവിശേഷതകൾക്കു കാരണം ചാലകത്തിലുള്ള ചലിക്കുന്ന സ്വതന്ത്ര ചാർജുകളാണ്